നമസ്കാരം മൊഡ്യൂൾ 1 യൂണിറ്റ് 17 ലേക്ക് സ്വാഗതം ഇത് നാം മുൻപ് നടത്തിയ റൈറ്റിംഗ് ഔട്ട്കംസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേരത്തെ കോഴ്സ് ഔട്ട്കംസ് സ്റ്റേറ്റ്മെന്റുകളുടെ ഘടന നമ്മൾ പരിശോധിച്ചു കോഴ്സ് ഔട്ട്കംസ് സ്റ്റേറ്റ്മെന്റിൽ നാല് ഘടകങ്ങളുണ്ട് ആക്ഷൻ നോലെഡ്ജ് കണ്ടീഷൻ പിന്നെ ക്രൈറ്റീരിയൻ ഈ ഘടകങ്ങളെല്ലാം എന്താണെന്നും എങ്ങനെയാണ് ഇവ ഒരു കോഴ്സ് ഫലത്തിൽ ഉൾപ്പെടുത്തുന്നതെന്നും നാം പരിശോധിച്ചു ഇപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഔട്ട്കം സ്റ്റേറ്റ്മെന്റുകളുടെ ഗുണനിലവാരവും പ്രസക്തിയും നിലനിർത്തുന്നുവെന്ന് നാം എങ്ങനെ ഉറപ്പാക്കും എന്നതാണ് ഇതിലേക്ക് നമ്മൾ മുഴുവൻ ഘടകങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുകയും ചെക്ക്ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും അവ പിന്തുടരുക വഴി അല്ലെങ്കിൽ ഇതിന്റെയെല്ലാം ചട്ടക്കൂടിൽ നിങ്ങൾക്ക് നല്ല കോഴ്സ് ഫലങ്ങൾ എഴുതാനാകും ഒരു കോഴ്സിനായി നമ്മൾ എത്ര സിഒകൾ എഴുതണം എന്നതാണ് ആദ്യ കാര്യം നമ്മൾ ഇത് വളരെ ചുരുക്കി എഴുതണോ ഒരു കോഴ്സിനായി CO യുടെ എണ്ണം ഞങ്ങൾ നോക്കും വളരെ ചെറിയ എണ്ണം CO കൾക്ക് കോഴ്സിന്റെ എല്ലാ വശങ്ങളിലും മതിയായ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കില്ല കോഴ്സ് ഔട്ട്കംസ് യഥാർത്ഥ ഇൻസ്ട്രക്ഷൻ ഡിസൈനിന്റെ അടിസ്ഥാനമാണെന്ന് ഓർക്കുക കാരണം കോഴ്സ് ഔട്ട്കംസ് കൈവരിക്കേണ്ടതാണ് കൂടാതെ കോഴ്സ് ഔട്ട്കംസ് ഏറ്റവും മികച്ച രീതിയിൽ കൈവരിക്കാൻ നമ്മൾ ലക്ഷ്യമിടുന്നു അതിനാൽ വളരെ ചെറിയ എണ്ണം സിഓകൾ കോഴ്സിനെ വേണ്ടത്ര വിശദമായി ഉൾക്കൊള്ളുന്നില്ല കൂടാതെ നിരവധി സിഓകൾ മൂല്യനിർണ്ണയ രൂപകൽപ്പനയും സിഓകളുടെ കണക്കുകൂട്ടലും സംബന്ധിച്ച എല്ലാ പ്രക്രിയകളെയും വളരെ കുഴപ്പവും ബുദ്ധിമുട്ടുള്ളതും ആക്കുന്നു അതിനാൽ നമ്മൾ ശരിയായ എണ്ണം COs തിരഞ്ഞെടുക്കേണ്ടതുണ്ട് മിക്ക കോഴ്സുകളും ഈ വിഭാഗത്തിൽ പെടുന്നു 3 0 0 അതായത് ആഴ്ചയിൽ 3 പ്രഭാഷണ മണിക്കൂർ ട്യൂട്ടോറിയൽ ഇല്ല ലബോറട്ടറി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് 3 1 0 ആകാം ആഴ്ചയിൽ 3 പ്രഭാഷണ സമയവും 1 ട്യൂട്ടോറിയലും ലബോറട്ടറി ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 0 1 3 പ്രഭാഷണങ്ങളും കൂടാതെ ആഴ്ചയിൽ 1 മണിക്കൂർ ലബോറട്ടറി സെഷനും ഉണ്ടായിരിക്കാം ട്യൂട്ടോറിയൽ ഉണ്ടാകില്ല NBA അനുസരിച്ച് അവർക്ക് ഏകദേശം 6 കോഴ്സ് ഔട്ട്കംസ് ഉണ്ടായിരിക്കണം 6 കോഴ്സ് ഔട്ട്കംസ് എന്നതിനെ 6 2 അല്ലെങ്കിൽ 6 2 എന്ന് വ്യാഖ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്ക് 8 ഔട്ട്കംസ് വരെ എഴുതാൻ കഴിയും നിങ്ങൾക്ക് ഒരു കോഴ്സ് 0 0 1 ഉണ്ടായിരിക്കുമെന്നതിനാൽ വ്യത്യസ്ത എണ്ണം ക്രെഡിറ്റുകൾ വഹിക്കുന്ന ഒരു കോഴ്സിന്റെ CO കളുടെ എണ്ണം ഉചിതമായി ക്രമീകരിക്കണം അതിനർത്ഥം ഒരു ഒറ്റപ്പെട്ട ലബോറട്ടറി കോഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 0 0 അല്ലെങ്കിൽ 4 0 0 പോലും ഉണ്ടായിരിക്കാം അതിനനുസരിച്ച് ഒരു 4 ക്രെഡിറ്റ് കോഴ്സിനായി നിങ്ങൾക്ക് ഇത് പരമാവധി 10 വരെ എടുക്കാം അല്ലെങ്കിൽ 2 ക്രെഡിറ്റ് കോഴ്സിന് നിങ്ങൾക്ക് പരമാവധി എണ്ണം 6 ആയി പരിമിതപ്പെടുത്താം അതിനാൽ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റുകളെ ആശ്രയിച്ച് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഔട്ട്കംസിന്റെ എണ്ണം തീർച്ചയായും ഒരാൾ തിരഞ്ഞെടുക്കണം കോഴ്സ് ഔട്ട്കംസിന്റെ നേട്ടം പിന്നീടുള്ള ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത് പോലെ രൂപവത്കരണവും സംഗ്രഹാത്മകവുമായ വിലയിരുത്തലിലൂടെയാണ് അളക്കുന്നത് കാരണം നാം കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട് കോഴ്സ് ഔട്ട്കം കൈവരിക്കേണ്ടതുണ്ട് എന്താണ് അടിസ്ഥാനം അടിസ്ഥാനം വിലയിരുത്തലാണ് മൂല്യനിർണ്ണയം ഫോർമ്മറ്റിവ് അല്ലെങ്കിൽ സമ്മറ്റീവ് ആകാം സമ്മറ്റീവ് മൂല്യനിർണ്ണയത്തിൽ അവസാന സെമസ്റ്റർ പരീക്ഷ ക്ലാസ് ടെസ്റ്റുകൾ അസൈൻമെന്റുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഫോർമ്മറ്റിവ് അസൈൻമെന്റിൽ ക്വിസ് പോലുള്ള ക്ലാസ്സ് റൂം സംബന്ധമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു അതിനുപുറമെ ഒരാൾ വളരെ സങ്കീർണ്ണമായ നേട്ടങ്ങൾ അളക്കാനുള്ള മാർഗ്ഗം നിർദ്ദേശിക്കുന്നത് തുടരരുത് കൂടാതെ നിങ്ങൾ വിവിധ തരത്തിലുള്ള സർവേകൾ നടത്തണമെന്നും അല്ലെങ്കിൽ ഒരു CO യുടെ നേട്ടം കണക്കുകൂട്ടാൻ വ്യത്യസ്ത തരം പരിശോധനകൾ നടത്തണമെന്നും ആവശ്യപ്പെടുന്നു അതിനാൽ അധിക ഉപകരണങ്ങൾ ആവശ്യമില്ലാതെ സാധാരണയായി പിന്തുടരുന്ന മൂല്യനിർണ്ണയ സംവിധാനങ്ങളിലൂടെ ഒരു CO യുടെ നേട്ടം നിർണ്ണയിക്കുക സാധ്യമാകണം സിലബസിലെ എല്ലാ വിഭാഗങ്ങളിലും ഒരുപോലെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഒരു കോഴ്സിന്റെ സിലബസ് യൂണിറ്റുകളുടെ ഒരു കൂട്ടമായി അവതരിപ്പിക്കുന്നത് പല സർവകലാശാലകളുടെയും രീതിയാണ് കഴിഞ്ഞ 30 വർഷമായി ഇങ്ങനെ സിലബസ് ഒരു കൂട്ടം യൂണിറ്റുകളായി അവതരിപ്പിക്കുന്ന പതിവാണ് നിങ്ങൾ തിരിച്ചറിയുന്ന എല്ലാ യൂണിറ്റുകളിൽ നിന്നും തുല്യ അളവിൽ മൂല്യനിർണ്ണയ ഇനങ്ങൾ സജ്ജമാക്കാൻ പരീക്ഷകരോട് ആവശ്യപ്പെടുന്നു ഇവിടെ ഞങ്ങൾ പറയുന്നു ഒരു കോഴ്സിന്റെ യൂണിറ്റുകളും സി കളും തമ്മിൽ ഒന്നിൽ നിന്ന് ഒരു പൊരുത്തപ്പെടൽ ആവശ്യമില്ല ഒരു യൂണിറ്റിന് ഒരു കോഴ്സ് ഫലം ഉണ്ടായിരിക്കണമെന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അത് ആവശ്യമില്ല ഉള്ളടക്കം ഉചിതമാണെങ്കിൽ ഒരു യൂണിറ്റിനെ ഒന്നിലധികം CO ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാൻ കഴിയും ആവശ്യമെങ്കിൽ ഒരു CO യ്ക്ക് ഒന്നിലധികം യൂണിറ്റുകളിൽ നിന്നുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് 5 യൂണിറ്റുകളുള്ള ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ കോഴ്സ് വേണ്ടത്ര വിവരിക്കാൻ 6 7 8 കോഴ്സ് ഔട്ട്കംസ് എഴുതാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അവിടെ കോഴ്സിൽ പ്രധാനപ്പെട്ടതായി നിങ്ങൾ കരുതുന്ന എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധ ചെലുത്തുക ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു വലിയതോതിൽ ഒരു പ്രവർത്തന ക്രിയ മാത്രം ഉപയോഗിക്കുക രണ്ടാമത്തെ പ്രവർത്തന ക്രിയ അസാധാരണമായ അവസ്ഥയിൽ മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഒരു പ്രവർത്തന ക്രിയ മാനദണ്ഡമായിരിക്കണം കൂടാതെ വിജ്ഞാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ലൈക്ക് സച് ആസ് വാരിയസ് ഡിഫറെൻറ് എറ്റ് സെറ്ററാ ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എല്ലാ വിജ്ഞാന ഘടകങ്ങളും ക്രമത്തിൽ എണ്ണുക അദ്ധ്യാപകരെന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾ അശ്രദ്ധമായി നാം വാരിയസ് ഡിഫറെൻറ് എന്നിങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ വാരിയസ് ആസ്പെക്ടസ് അല്ലെങ്കിൽ ഡിഫറെൻറ് ആസ്പെക്ടസ് എന്ന് പറയുന്നതുപോലെ നാം ചില ഉദാഹരണങ്ങൾ നൽകുകയും സച് ആസ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അത്തരം പദപ്രയോഗങ്ങൾ കോഴ്സ് ഔട്ട്കമ്മിന്റെ ഭാഗമായി ഉപയോഗിക്കരുത് കാരണം വാരിയസ് ഡിഫറെൻറ് എന്നത് അധ്യാപകന് വളരെ വ്യക്തമാണെങ്കിലും നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചാൽ വിദ്യാർത്ഥിക്ക് പഠിക്കേണ്ടതെല്ലാം എന്താണെന്ന് അറിയണം അവ കണക്കാക്കിയില്ലെങ്കിൽ അയാൾക്ക് അതിനു കഴിയില്ല അതിനാൽ എല്ലാ വിജ്ഞാന ഘടകങ്ങളും എണ്ണത്തിൽ ക്രമീകരിക്കുന്നത് കൂടുതൽ വ്യക്തമാക്കും ചിലപ്പോൾ നമുക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് അധ്യാപകന് തോന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അത് കാണിക്കുന്നത് 5 6 വിജ്ഞാന ഘടകങ്ങളിൽ കൂടുതൽ എണ്ണപ്പെടേണ്ടതായിരിക്കില്ല എന്നാണ് CO പ്രസ്താവനയുടെ ഭാഗമായി പ്രസക്തമായ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്ത എല്ലാ വിജ്ഞാന ഘടകങ്ങളും ഉൾപ്പെടുത്തുക സഹപ്രവർത്തകരുമായി നിരവധി ആവർത്തനങ്ങളോ ചർച്ചകളോ ആവശ്യമായി വരുന്നത് ഇവിടെയാണ് CO സ്റ്റേറ്റ്മെന്റ് കഴിയുന്നത്ര വിശദവും അളക്കാവുന്നതുമാക്കാൻ ശ്രമിക്കുക ഇത് എടുത്തു കാണാൻ പാടില്ല എല്ലാം ഒരുതരം പരോക്ഷമാണ് വിദ്യാർത്ഥി കൃത്യമായി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിദ്യാർത്ഥിയോട് വ്യക്തമായി ആശയവിനിമയം നടത്താൻ പ്രസ്താവനയ്ക്ക് തന്നെ കഴിയണം സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്ന നിരവധി ആവർത്തനങ്ങളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ ഒടുവിൽ CO പ്രസ്താവന വളരെ അമൂർത്തമോ വളരെ നിർദ്ദിഷ്ടമോ ആക്കരുത് വളരെ നിർദ്ദിഷ്ടമായത് ചിലപ്പോൾ CO യെ പ്രതിനിധീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമായി മാറും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ കഴിയൂ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു CO എഴുതുമ്പോഴെല്ലാം ഒരു CO കോഴ്സിന്റെ 10 മുതൽ ഏകദേശം 20 25 വരെ കോഴ്സിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഒരാൾക്ക് ധാരാളം മൂല്യനിർണയ ഇനങ്ങൾ ചോദിക്കാൻ കഴിയണം ധാരാളം മൂല്യനിർണ്ണയ ഇനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയണം അത് വളരെ വ്യക്തമാണെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യം പ്രസ്താവിക്കും നിങ്ങൾ അത് വളരെ ഉയർന്ന തലത്തിൽ എഴുതുന്നത് വളരെ അമൂർത്തമാണെങ്കിൽ വിദ്യാർത്ഥിക്ക് താൻ എന്താണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല അതിനാൽ ഒരു കോഴ്സ് ഔട്ട്കം എഴുതുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഇവയാണ് കൂടാതെ ഒരു ചെക്ക്ലിസ്റ്റും ഉണ്ട് അതായത് ഒരു കോഴ്സ് ഫല പ്രസ്താവന എഴുതിയ ശേഷം നിങ്ങൾ 5 ഇനങ്ങളുടെ ഈ ചെക്ക്ലിസ്റ്റിലൂടെ കർശനമായി പോകുക CO ഒരു പ്രവർത്തന ക്രിയയോടെ ആരംഭിക്കുന്നുണ്ടോ ലളിതം നിങ്ങൾ ഒരു പ്രവർത്തന ക്രിയ ഉപയോഗിച്ച് ആരംഭിക്കേണ്ടതുണ്ട് അദ്ധ്യാപന പ്രകടനത്തിനോ കവർ ചെയ്യേണ്ട വിഷയത്തിനോ പകരം വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CO പറഞ്ഞിരിക്കുന്നത് പല അധ്യാപകരും ചെയ്യുന്ന ഒരു പൊതുവായ തെറ്റാണ് ഇത് കാരണം നിങ്ങൾ ഈ വിഷയത്തെ ഒരു അധ്യാപകന്റെ വീക്ഷണകോണിൽ നിന്നാണ് നോക്കുന്നത് വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പഠിക്കാൻ സൌകര്യമൊരുക്കാൻ അധ്യാപകൻ അവസരം നൽകണം എന്ന് ചിലപ്പോൾ പറയുന്നത് പോലെ അതിനാൽ CO എപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കണം പഠന പ്രക്രിയ ഉപയോഗിക്കുന്നതിനുപകരം CO എന്നത് പഠന ഉൽപ്പന്നമായി പ്രസ്താവിക്കണം ഇത് വീണ്ടും ഒരു സാധാരണ രീതിയാണ് ആദ്യം നിങ്ങൾ പഠന പ്രക്രിയ പ്രസ്താവിക്കുകയും തുടർന്ന് നിങ്ങൾ പഠന ഉൽപ്പന്നത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ പഠന ഉൽപ്പന്നം ആദ്യം പുറത്തു കൊണ്ടുവരണം അത് വളരെ വ്യക്തമാക്കണം പഠന പ്രക്രിയ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതി അല്ലെങ്കിൽ സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഇവയെല്ലാം പിന്നീട് വരണം ചിലപ്പോൾ അത് ഓപ്ഷണൽ ആകാം അതിനാൽ പ്രസ്താവന പഠന ഉൽപ്പന്നത്തെ വ്യക്തമായി പ്രതിനിധീകരിക്കണം നാലാമത്തേത് ശരിയായ പൊതുവായ നിലയിലും മറ്റ് CO കളിൽ നിന്ന് താരതമ്യേന സ്വതന്ത്രമായും പ്രസ്താവിച്ച CO ആണ് അതിനർത്ഥം ആദ്യം അത് മറ്റ് CO ൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം എന്നതാണ് ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ ഓവർലാപ്പ് ഉണ്ടാകരുത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായി ഞങ്ങൾ പ്രസ്താവിച്ചതുപോലെ അത് ശരിയായ അളവിലുള്ള സാമാന്യതയായിരിക്കണം ഇത് ധാരാളം മൂല്യനിർണ്ണയ ഇനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു ചിലപ്പോൾ ഞങ്ങൾ അതിമോഹികളായിരിക്കും നമ്മൾ വളരെ അമിതാഭിലാഷമായ CO പ്രസ്താവന എഴുതുന്നു അതിനാൽ ആദ്യത്തേത് CO കൈവരിക്കാനാകുമോ അതായത് വിദ്യാർത്ഥിയുടെ പശ്ചാത്തലം മുൻവ്യവസ്ഥകൾ കഴിവുകൾ കോളേജിൽ ലഭ്യമായ സൌകര്യങ്ങൾ സി യെ അഭിസംബോധന ചെയ്യാൻ ലഭ്യമായ സമയം എന്നിവ അവർ കണക്കിലെടുക്കുന്നുണ്ടോ നിങ്ങൾ CO പ്രസ്താവന എഴുതുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ആണ് ചെക്ക്ലിസ്റ്റ് വീണ്ടും നിങ്ങൾ ഒരു CO സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴെല്ലാം ചെക്ക്ലിസ്റ്റിലെ ഈ 5 ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ആ പ്രസ്താവന പരിശോധിക്കുക എന്ന് ഞങ്ങൾ ഊന്നിപ്പറയുന്നു അതുവഴി നിങ്ങൾ ചില അശ്രദ്ധമായ പിശകുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകും ഇപ്പോൾ നമുക്ക് ചില സാമ്പിളുകൾ നോക്കാം അവ യഥാർത്ഥത്തിൽ ഫാക്കൽറ്റി അംഗങ്ങളുമായുള്ള ഞങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ് ലഭിച്ചത് ഞങ്ങൾ അത്തരം ഇടപെടലുകൾ നടത്തിയപ്പോൾ ബോർഡ്സ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ വ്യക്തിഗത ഫാക്കൽറ്റി എഴുതിയ ചില പ്രസ്താവനകൾ ശേഖരിച്ചു ഒരു CO എഴുതുന്നതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ചില പിശകുകൾ നമുക്ക് നോക്കാം അങ്ങനെ ഒരു CO എഴുതിയിരുന്നത് വിദ്യാർത്ഥികൾ നിരവധി പ്രോജക്ടുകൾ നടപ്പിലാക്കും എന്നാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഒരു പ്രവർത്തന ക്രിയയിൽ ആരംഭിക്കുന്നില്ല അതിനുപുറമെ സാധ്യമായ പിശകുകൾ എന്തൊക്കെയാണ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രബോധന പ്രവർത്തനമാണ് അതിനാൽ ഇത് ഒരു പ്രക്രിയ മാത്രമാണ് ഇത് ഒരു CO പ്രസ്താവനയല്ല എന്തെങ്കിലും നേടേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു CO പ്രസ്താവനയേക്കാൾ ഒരു പ്രക്രിയ പ്രസ്താവനയാണ് കോമ്പൻസേറ്ററുകളുടെയും കൺട്രോളറുകളുടെയും ആശയങ്ങൾ ഉണ്ടായിരിക്കുക കൺട്രോള്ളേർസ് എന്നാൽ P PD PI PID കൺട്രോള്ളേർസ് കോമ്പൻസേറ്ററുകളുടെയും കൺട്രോളറുകളുടെയും ആശയങ്ങൾ ഉണ്ട് എന്താണ് ഇതിനർത്ഥം ആശയങ്ങൾ ഉള്ളത് ഒരു ആന്തരിക സംവിധാനമാണ് വിദ്യാർത്ഥിയുടെ ആന്തരിക മാറ്റം പോലെ എന്നാൽ ഇത് നേരിട്ട് അളക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് ആശയങ്ങൾ നന്നായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർവ്വഹിക്കാൻ കഴിയണം പ്രകടനമോ പെരുമാറ്റമോ പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ എഴുതണം ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു PD അല്ലെങ്കിൽ PI കൺട്രോളർ രൂപകൽപ്പന ചെയുന്ന പോലെ കേവലം പറയുന്നതിനേക്കാൾ അങ്ങനെ എഴുതണം അതായത് ആന്തരിക മാറ്റങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്താവന എഴുതുക ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മറ്റൊരു ഉദാഹരണം ലാബിലെ സോഫ്റ്റ്വെയർ പാക്കേജ് ഉപയോഗിച്ച് താപവൈദ്യുത നിലയങ്ങളുടെ ഒപ്റ്റിമൽ ജനറേറ്റർ ഷെഡ്യൂളിംഗ് നേരിട്ട് ഒരു പ്രവർത്തന ക്രിയയും ഇല്ല അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടതെന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ സിലബസിന്റെ ഭാഗത്തെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്നത് പോലെയാണ് ഇത് അവരുടെ വിഷയ ലിസ്റ്റിൽ ഇത് ഉണ്ടായിരിക്കാം അത് ഒരു കോഴ്സ് ഫലമായി അതുപോലെ എടുക്കുകയും എഴുതുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു സിഒ ജനറേറ്റർ ട്രാൻസ്ഫോർമർ ഇൻഡക്ഷൻ മോട്ടോർ എന്നിവയ്ക്കുള്ള സംരക്ഷണ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും സംരക്ഷണ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുക എന്നതിനർത്ഥം അത് ഒരു വിദ്യാർത്ഥിയുടെ ആന്തരിക മാറ്റമാണ് അളക്കാൻ കഴിയുന്ന ഒരു പെരുമാറ്റമല്ല അതിനാൽ CO കൾ കഴിവുകളും പ്രകടമാക്കാൻ കഴിയുന്ന പെരുമാറ്റങ്ങളുമാണ് വിദ്യാർത്ഥികളിലെ ആന്തരിക മാറ്റങ്ങളുടെ വിവരണമല്ല ഈ ആന്തരിക മാറ്റങ്ങൾ വ്യക്തമായും ആവശ്യമാണ് എന്നാൽ ആവശ്യമായ ആന്തരിക മാറ്റങ്ങൾ മാത്രം നിങ്ങൾ വിവരിച്ചാൽ നമുക്ക് അളക്കാൻ കഴിയില്ല ഇത് കൂടുതൽ രസകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു CO കണ്ടെത്തി മെറ്റീരിയൽ സയൻസിലും ലോഹശാസ്ത്രത്തിലും പുരോഗതി സംബന്ധിച്ച പഠനം തുടരാൻ കോഴ്സ് പൂർത്തിയായതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണിത് ഒരു പ്രത്യേക കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ മെറ്റീരിയൽ സയൻസിലും ലോഹശാസ്ത്രത്തിലും പുരോഗതിയുടെ പഠനം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എടുത്ത കോഴ്സുമായി ഇതിന് ബന്ധമില്ല അതിനാൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പഠന പ്രവർത്തനവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല മറ്റൊന്ന് സമൂഹത്തിന് ഉപയോഗപ്രദമായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ തിരിച്ചറിയുക വിശകലനം ചെയ്യുക പരിഹരിക്കുക നിങ്ങൾ ഏത് കോഴ്സിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പോലും അത് പറയുന്നില്ല ആദ്യത്തേത് കുറഞ്ഞത് മെറ്റീരിയൽ സയൻസ് നോക്കുകയായിരുന്നു അത് ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സാകാം സമൂഹത്തിന് ഉപയോഗപ്രദമായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും പരിഹരിക്കാനും അത് പറയുന്നു അതിനാൽ ഇത് അവ്യക്തമാണ് ഒരു കോഴ്സിനും പ്രത്യേകമല്ല ഡാറ്റാബേസുകൾ ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചതിന്റെ പ്രായോഗിക അനുഭവം നേടുക വീണ്ടും ഇത് ഒരു നിർദ്ദിഷ്ട പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നില്ല നിർദ്ദിഷ്ടമല്ലാത്ത പഠന പ്രവർത്തനമുണ്ട് അളക്കാൻ കഴിയുന്ന ഒരു പഠന ഉൽപ്പന്നമില്ല സിന്റാക്സ് ഡയറക്ടഡ് ട്രാൻസ്ലേഷൻ പിന്നെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനും ഒരിക്കൽ കൂടി ഇതിന് ആക്ഷൻ ക്രിയ ഇല്ല പൊതുവെ സിലബസിൽ നിന്ന് പുറത്തെടുത്ത വിഷയം പോലെ തോന്നുന്നു NP സമ്പൂർണ്ണ പ്രശ്നങ്ങളും അവ കൈകാര്യം ചെയ്യാനുള്ള വ്യത്യസ്ത വിദ്യകളും എന്ന ആശയം അവതരിപ്പിക്കുക ആരാണ് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് NP സമ്പൂർണ്ണ പ്രശ്നങ്ങൾ എന്ന ആശയം അവതരിപ്പിക്കുന്ന അധ്യാപകനാണോ ഇതിനർത്ഥം ഇത് ഒരു അധ്യാപക കേന്ദ്രീകൃതമാണെന്നും ഈ പ്രസ്താവന വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നേരിട്ട് പ്രതിനിധാനം ചെയ്യുന്നില്ല അതിനാൽ അത് പഠനത്തിന്റെ ഉൽപന്നത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല ഇത് ഇപ്പോഴും അവ്യക്തമാണ് വിഷയത്തെ സമയത്തിന്റെ ആവശ്യമായി കണക്കാക്കുന്നതിനും ഭൂമിയുടെ പരിസ്ഥിതിയോടും അതിന്റെ പരിരക്ഷയോടും ക്രിയാത്മക മനോഭാവം പുലർത്തുന്നതിനുള്ള വ്യാപ്തി സങ്കീർണ്ണത ആവശ്യകത എന്നിവയെ അഭിനന്ദിക്കുക ഭൂമിയുടെ പരിസ്ഥിതിയും സംരക്ഷണവും എന്ന അവസാന വാചകം ഒഴികെ പ്രസ്താവന വിദ്യാർത്ഥി കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പറയുന്നില്ല അതിനാൽ അഭിനന്ദനവും പോസിറ്റീവ് മനോഭാവവും ആന്തരിക മാറ്റങ്ങളാണ് അവയെ നേരിട്ട് അളക്കാനാവില്ല അതിനാൽ ഒരു അദ്ധ്യാപകൻ ആദ്യമായി ഒരു കോഴ്സിന്റെ ഫലങ്ങൾ എഴുതുമ്പോൾ ചെയ്യുന്ന ചില തെറ്റുകൾ ഇവയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്നതോ പഠിപ്പിക്കുന്നതോ ആയ ഒരു കോഴ്സിന്റെ കോഴ്സ് ഫലങ്ങൾ എഴുതുക ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ശ്രദ്ധിക്കുകയും ചെക്ക്ലിസ്റ്റിലെ എല്ലാ ഇനങ്ങളും ഉണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യുക മുമ്പത്തെ യൂണിറ്റിൽ നിങ്ങൾ കോഴ്സ് ഫലങ്ങളുടെ ചില സാമ്പിളുകൾ എഴുതി എന്താണ് ഘടകങ്ങൾ അവ എങ്ങനെ ഉൾപ്പെടുത്തും തുടങ്ങിയവ ചെക്ക്ലിസ്റ്റിലെ എല്ലാ ഇനങ്ങളും അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്നും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സമ്പൂർണ്ണ കോഴ്സിനായി എഴുതേണ്ടതുണ്ട് കൂടുതൽ പരിശീലനത്തിനായി ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നതിനായി എന്തെങ്കിലും ഫലങ്ങളുണ്ടെങ്കിൽ പിശകുകൾ തിരിച്ചറിയാനും തിരുത്തിയെഴുതാനും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടും ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു 10 കോഴ്സ് ഫലങ്ങൾ നൽകും ഒന്നാമതായി അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്ന് നിങ്ങൾ പറയുകയും തുടർന്ന് അത് മാറ്റിയെഴുതുകയും വേണം എന്നിരുന്നാലും അത് നിങ്ങൾക്ക് പരിചിതമായ വിഷയങ്ങളിൽ പെടണമെന്നില്ല വാചകം ശരിയാക്കുക അതുവഴി ഉചിതമായ കോഴ്സ് ഫലമായി അത് വലിച്ചിടാം നമുക്ക് ഈ ഇനങ്ങളിലൂടെ വേഗത്തിൽ പോകാം വിവിധ മേഖലകളിലെ വിവിധ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ വിശകലനം ചെയ്യുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അൽഗോരിതങ്ങളും ഡിസൈൻ ടെക്നിക്കുകളും പ്രയോഗിക്കുക സിന്റാക്സ് സംവിധാനം ചെയ്ത വിവർത്തനവും ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനും തടി പ്ലൈവുഡ് പെയിന്റുകൾ ഗ്ലാസ് വസ്തുക്കൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫീൽഡ് ഐഡന്റിഫിക്കേഷൻ മണ്ണ് വർഗ്ഗീകരണ സംവിധാനം മണ്ണിനെക്കുറിച്ചും മണ്ണിന്റെ മെക്കാനിക്സിന്റെ വികസനത്തെക്കുറിച്ചും മണ്ണിന്റെ രൂപീകരണത്തെക്കുറിച്ചും മണ്ണിന്റെ സവിശേഷതകളെക്കുറിച്ചും അറിയുക ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ ലോഡിംഗിന് വിധേയമായ ഒരു ബോഡിയുടെ സ്ട്രെസ് സ്ട്രെയിൻ ബന്ധം അറിയുക ആധുനിക ലോഹ സാമഗ്രികൾ സ്മാർട്ട് മെറ്റീരിയലുകൾ ലോഹമല്ലാത്ത വസ്തുക്കൾ നൂതന ഘടനാപരമായ സെറാമിക്സ് എന്നിവയുടെ ഘടനയും ഗുണങ്ങളും പ്രയോഗങ്ങളും പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും ബേസ് ബാൻഡ് സിഗ്നൽ ആശയങ്ങളെക്കുറിച്ചും വ്യത്യസ്ത ഈക്വലൈസേഴ്സിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അറിവുണ്ടായിരിക്കും അഡാപ്റ്റീവ് സിസ്റ്റങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടുക അതിനാൽ ഈ പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ദയവായി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും പ്രയോഗിച്ച് ചെക്ക്ലിസ്റ്റ് ഉപയോഗിക്കുക ഇതിലെ പിശകുകൾ തിരിച്ചറിയാനും അത് വീണ്ടും മാറ്റാനും ശ്രമിക്കുക ഇപ്പോൾ അടുത്ത യൂണിറ്റ് 18 ൽ ഞങ്ങൾ CO കളുമായി ബന്ധപ്പെട്ട ക്ലാസ് സെഷനുകളുടെ എണ്ണം തിരിച്ചറിയാനും ഓരോ കോഴ്സ് ഫലവും PO PSO കോഗ്നിറ്റീവ് ലെവൽ വിജ്ഞാന വിഭാഗങ്ങൾ എന്നിവയുമായി ടാഗ് ചെയ്യാനും ശ്രമിക്കും അതായിരിക്കും അടുത്ത യൂണിറ്റ് വളരെയധികം നന്ദി